ബയോറിയാക്ടറുകളെ കുറിച്ചുള്ള എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ പ്രഭാഷണം 14 ലേക്ക് സ്വാഗതം ഈ പ്രഭാഷണത്തിൽ നമ്മൾ മൊഡ്യൂൾ 4 ആരംഭിക്കുകയാണ് മോഡ്യൂൾ 4 ന്റെ തലക്കെട്ട് ബയോറിയാക്ടർ പ്രകടനത്തെ ബാധിക്കുന്ന കൾടിവേഷൻ പാരാമീറ്ററുകളുടേതാണ് നമുക്ക് അളക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന ധാരാളം കൾടിവേഷൻ പരാമീറ്ററുകൾ ഉണ്ട് ബയോറിയാക്ടറുകൾ പരിചയപ്പെടുത്തിയ സമയത്ത് ഇവയിൽ ചിലത് നാം ഹ്രസ്വമായി കണ്ടു ഈ മോഡ്യൂളിൽ അവ ബയോറിയാക്ടർ പ്രകടനത്തെ എങ്ങനെ ബാധിക്കുന്നു അവ എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നൊക്കെ അറിയും അപ്പോൾ നമുക്ക് ബയോറിയാക്റ്ററിന്റെ ഏറ്റവും നല്ലത് കിട്ടും ആദ്യ മോഡ്യൂളിൽ ബയോറിയാക്റ്ററുകൾ പരിചയപ്പെടുത്തുകയും ബയോറിയാക്റ്ററിന്റെ പൊതുവായ തരം പ്രവർത്തന രീതികളും ഡെസിമൽ റിഡക്ഷൻ ടൈം ഉൾപ്പെടെ ചില അണു നാശന കൈനറ്റിക്സും നമ്മൾ കണ്ടു രണ്ടാമത്തെ മോഡ്യൂളിൽ ബയോറിയാക്റ്ററിന്റെ അനന്തരഫലങ്ങൾ നമ്മൾ കണ്ടു ബയോറിയാക്റ്ററിന്റെ രണ്ട് പ്രധാന അനന്തരഫലങ്ങൾ ഒന്ന് കോശങ്ങളുടെ ബയോമാസ് കോശങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു എൻസൈം പ്രതിപ്രവർത്തനം വഴി ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അതിനെ രൂപപ്പെടുത്തിയെടുക്കൽ അവയുടെ ഗണിതപ്രാതിനിധ്യം എൻസൈം കൈനറ്റിക്സ് എൻസൈം ഇൻഹിബിഷനുകളും കോശ ഗാഢത സബ്സ്റ്റെറേറ്റ് ഗാഢത ബയോറിയാക്ടറുകളിൽ ഉൽപ്പന്ന ഗാഢത തുടങ്ങിയ പ്രധാനപ്പെട്ട പരാമീറ്ററുകളുടെ അളവെടുപ്പ് തുടങ്ങിയ നിരവധി വിശദാംശങ്ങൾ നമ്മൾ കണ്ടു മൊഡ്യൂൾ 3 ൽ ചില രൂപകൽപനകൾക്ക് ഉപയോഗപ്രദമായ പൊതുവായ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ഈ മോഡ്യൂൾ 4 ൽ ബയോറിയാക്ടർ പ്രകടനത്തെ ബാധിക്കുന്ന കൾടിവേഷൻ പരാമീറ്ററുകളാണ് പറയുന്നത് കൾടിവേഷൻ പാരാമീറ്ററുകളെ ബയോറിയാക്ടർ പരിതസ്ഥിതി പാരാമീറ്ററുകൾ എന്നും വിളിക്കുന്നു ബയോറിയാക്റ്ററിൽ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന യഥാർത്ഥ വ്യവസായ ശാല കോശമാണെന്ന് നമ്മൾ പറഞ്ഞു അതിനാൽ കോശങ്ങളുടെ ബയോറിയാക്റ്ററിലെ പരിസ്ഥിതിയെയോബയോറിയാക്റ്ററിലെ പരിസ്ഥിതിയെയോ ബാധിക്കുന്ന പരാമീറ്ററുകളെ പരിതസ്ഥിതി പാരാമീറ്ററുകൾ അഥവാ കൾടിവേഷൻ പാരാമീറ്ററുകൾ എന്നു വിളിക്കുന്നു കൾടിവേഷൻ അളവു കോലുകൾ പലതും നമുക്ക് നോക്കേണ്ടതുണ്ട് ഇപ്പോൾ ചില പൊതുവായ അളവുകൾ നോക്കാം മുമ്പ് നാം സൂചിപ്പിച്ചതുപോലെ അവ അളക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു പൊതുവായ അളവുകൾ ആദ്യത്തേത്താപം മീഡിയത്തിന്റെ പിഎച്ച് കോശങ്ങൾക്ക് പുറത്തുള്ള പിഎച്ച് മീഡിയത്തിന്റെ മിശ്രിതം എന്തൊകെയാണ്ആ മിശ്രിതങ്ങൾ ഇതോക്കെ നമ്മൾ കണ്ടതാണ് ഓർക്കുക വളർച്ചാ നിരക്കിനെ സബ്സ്ട്രേട് ഗാഢത ബാധിക്കുന്നു എന്നാൽ മീഡിയം മിശ്രിതം തന്നെ ഉൽപാതനക്ഷ്മതയെ സ്വാദീനിക്കുന്നു മീഡിയ മെച്ചപ്പെടുത്തുന്നതിന്റെ നിരവധി പഠനങ്ങൾ ഉണ്ട്പല വഴികളുമുണ്ട് ഗണിത വഴികളാണ് അവ പരീക്ഷണങ്ങളുടെ എണ്ണം കുറച്ച്മീഡിയയുടെ മിശ്രിതങ്ങൾ മാറ്റം വരുത്താനുള്ള വഴികൾപ്ലക്കറ്റ് ബർമൻ രീതി പോലുള്ളവ ഈ ആമുഖ പ്രഭാഷണത്തിൽ അതിനെ കുറിച്ച് നാം പറയുന്നില്ല ബയോറിയാക്റ്ററിന്റെ ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുന്ന പരിസ്ഥിതിക പാരാമീറ്ററുകളിൽ ഒന്നാണ് അത് അതിൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് എയറേഷനും അജിറ്റേഷനുംAeration Agitation നമ്മൾ അവയെ ഒരുമിച്ച് കാണുന്നത് എന്നാൽ അവ 2 വ്യത്യസ്ത വശങ്ങളാണ് ഓക്സിജൻ വിതരണത്തിനായി ബയോ റിയാക്ടറിൽ വായു നൽകുന്ന രീതിയാണ് എയറേഷൻ ഇവിടെ ഓക്സിജൻ ഓക്സിജൻ മിശ്രിതം നൈട്രജൻ എന്നിവയാണ് കോശങ്ങൾക്ക് ഓക്സിജൻ നൽകുന്നത് അജിറ്റേറ്റർ ചലിക്കുന്ന നിരക്കാണ് അജിറ്റേഷൻ അജീടെറ്ററിന്റെ സ്വാധീനം എന്താണ് ഇവ രണ്ടും ഒരുമിച്ച് ലയിപ്പിക്കുന്ന ഓക്സിജൻ നിലയെ സ്വാദീനിക്കുന്നു ഇത് DO ആണ് എയറേഷൻ അജിറ്റേഷൻ നിലകളെ ആശ്രയിച്ചാണ് അവ നില കൊള്ളുന്നത് ഇത് ഒരു പ്രത്യേക പരാമീറ്ററായാണ് കണക്കാക്കപ്പെടുന്നത് ഇത് വെവ്വേറെ അളക്കുകയും യഥാർത്ഥത്തിൽ എയറേഷനും അജിറ്റേഷനും കൃത്രിമമായി കൈകാര്യം ചെയ്തുകൊണ്ട് വെവ്വേറെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു നമുക്ക് ആദ്യം താപം പരിശോധിക്കാം കോശങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നതു ഒരു പ്രത്യേക ഊഷ്മാവിലാണെന്ന് നിങ്ങൾക്കറിയാം ശരീരത്തിന് അനുയോജ്യമായ താപനില ഉണ്ട് സാധാരണ താപനില എന്താണെന്നും ഉയർന്ന താപനില എന്താണെന്നും നിങ്ങൾക്കറിയാം ഉയർന്ന താപ നില പനി ഉണ്ടാക്കുന്നു ശരീരം ചില പ്രത്യേക കാരണങ്ങളാൽ ആണ് പനി ഉണ്ടാക്കുന്നത് പിന്നീട് അത് പല മാർഗ്ഗങ്ങളിലൂടെ സാധാരണ അവസ്ഥയിലേക്ക് മാറി ശരീരം നന്നായി പ്രവർത്തിക്കുകയും ചെയ്യും അതുപോലെ വ്യത്യസ്ത കോശങ്ങൾ വ്യത്യസ്ഥ താപനിലയിൽ നന്നായി പ്രവർത്തിക്കുന്നു ഉദാഹരണത്തിന് 300C ൽ പ്രവർത്തിക്കുന്ന ചില കോശങ്ങൾ ഉണ്ട് നമ്മുടെ കോശങ്ങളും സസ്തനികളുടെ കോശങ്ങളും 370C ലാണ് പ്രവർത്തിക്കുന്നത് ഈ പരിധി വളരെ ഇടുങ്ങിയതാണെങ്കിലും അത് 25 370C ആണ് ഈ താപ നിലയിൽ ചില വ്യത്യാസങ്ങളുണ്ടാകാം അതാണ് നാം ഈ പ്രഭാഷണത്തിൽ അറിയാൻ പോകുന്നത് വളർച്ചാ നിരക്കിലെ വ്യതിയാനം താപനിലക്കനുസരിച്ച് നോക്കിയാൽ ഇപ്പോൾ നമ്മൾ വളർച്ചാ നിരക്ക് എന്താണെന്ന് പറഞ്ഞു വളർച്ചാ നിരക്കുകൾ എത്രത്തോളം പ്രധാനം ആണെന്ന് നമ്മൾ പറഞ്ഞത് ഓർക്കുക അതുകൊണ്ട് താപനില വളർച്ചാ നിരക്കിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചും അറിയണം ഈ വ്യത്യാസം ഒരു രീതിയിൽ ആണ് അതായത്താപനില കുറയുമ്പോൾ വളർച്ച സംഭവിക്കുന്നില്ല തുടർന്ന് താപനില വർദ്ധിക്കുമ്പോൾ വളർച്ച നിരക്കും വർദ്ധിക്കുന്നു ഒരു പരമാവധി വില എത്തുകയും തുടർന്ന് വളരെ വേഗത്തിൽ താഴുകയും ചെയ്യുന്നു വാസ്തവത്തിൽ താപനില യുടെ വർദ്ധനവ് നിരക്ക് കുറഞ്ഞ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ താപനില യുടെ വർദ്ധനവ് നിരക്ക് കുറഞ്ഞ നിരക്കിനെ അപേക്ഷിച്ച് വളരെ പതുക്കെയാണ് അതുകൊണ്ട് ഒരു വശത്തേക്ക് ചരിഞ്ഞതോ അല്ലെങ്കിൽ ഒരു വശത്തേക്ക് വളഞ്ഞതോ ആണ് Tmin അഥവാ T മിനിമം ആണ് വളർച്ച സംഭവിക്കാത്ത താപനില Tmax വളർച്ച സംഭവിക്കുന്ന പരമാവധി താപനില അതിനപ്പുറം വളർച്ച നടക്കില്ല T opt എന്നാൽ വളർച്ച ഏറ്റവും നന്നായി നടക്കുന്ന താപനില വളർച്ചാ നിരക്ക് പരമാവധി താപനില യാണ് താപനില യെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങൾ ഇടുങ്ങിയ പരിധിയിൽ വരുന്ന ചില പ്രവർത്തങ്ങളിലൊഴികെ T ഒപ്റ്റിമം ആണ് നാം ഉപയോഗിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എനിക്കിതിനെ കുറിച്ച് നിങ്ങളോട് പറയാം കാരണം ഞങ്ങൾ ഇതിൽ ചില പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു നിശ്ചിത താപനിലയിൽ വളർച്ച പരമാവധിയാണെന്ന് പറയാം അതേസമയം ഉൽപ്പന്ന രൂപീകരണം മറ്റൊരു താപനിലയിൽ പരമാവധിയാണ് മോണോക്ലോണൽ ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളായ ഹൈബ്രിഡോമയെ കുറിച്ച് പഠനങ്ങൾ നടത്തിയപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഇതാണ് ഏകദേശം 37 ºC ൽ ഇവ നന്നായി വളരുന്നു എന്നാൽ മോണോക്ലോണൽ ആന്റിബോഡി ഉൽപ്പാദനം ഏകദേശം 39 ºC യിൽ ആണ് അതിനാൽ ആദ്യം കോശങ്ങൾ പരമാവധി വളർത്തുകയും തുടർന്ന് താപനില 39 0C ആയി മാറ്റുകയും അങ്ങനെ മോണോക്ലോണൽ ആന്റിബോഡി ഉൽപ്പാദനം പരമാവധി നടത്തിക്കുകയും ചെയ്യുക മോണോക്ലോണൽ ആന്റിബോഡി ദ്വിതീയ മെറ്റാബോലൈറ്റ് ആയതിനാൽ ഒരു ബാച്ച് വളർച്ചയുടെ അവസാനഘട്ടത്തിൽ ആണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അതായത് വളർച്ച പരമാവധി ആകുമ്പോൾ അതിന്റെ പരമാവധി താപനിലയിൽ നിങ്ങൾക്കു ഹൈബ്രിഡോമ വളർത്താൻ ആണ് അപ്പോൾ പരമാവധി കോശഗാഢത ലഭിക്കുന്നു തുടർന്ന് താപനിലയിൽ മാറ്റം വരുത്തുമ്പോൾ മോണോക്ലോണൽ ആന്റിബോഡി ഉൽപ്പാദനം ഉയരുകയും ചെയ്യും മറ്റ് താപനിലകളെ അപേക്ഷിച്ച് ധാരാളം കോശങ്ങളോ വലിയ എണ്ണം കോശങ്ങളോ നമുക്ക് ഇതിനകം തന്നെ ഉണ്ട് ഓരോ കോശവും ഉത്പാദിപ്പിക്കുന്ന മൊത്തം ഉൽപ്പാദനം കോശങ്ങളുടെ മൊത്തം എണ്ണത്തിന്റെ കൂടുതലാണ് അപ്പോൾ ഒരു പ്രത്യേക വോളിയത്തിൽ കോശങ്ങളുടെ മൊത്തം എണ്ണം നമ്മൾ പരമാവധി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കോശങ്ങളുടെ ഗാഢത പരമാവധിയാക്കുകയും തുടർന്ന് ഓരോ കോശവും ഉത്പാദിപ്പിക്കുന്ന താപനില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ബയോറിയാക്റ്ററിലൂടെയുള്ള മൊത്തം ഉൽപ്പാദനം ഉയർന്ന് പോകും ഈ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു വ്യവസായത്തിലും ഈ താപനില ഷിഫ്റ്റ് തന്ത്രങ്ങൾ ഉപയോഗിക്കും ഇതിലേക് തിരിച്ച് വന്നാൽ വളർച്ച സംഭവിക്കുന്ന താപനിലയുടെ പരിധി ഗണിതപരമായി Tmax Tmin ഇതിനെ വളർച്ചയുടെ താപനില പരിധി എന്ന് പറയുന്നു ഈ പരിധി Tmax ± Tmin ഇടുങ്ങിയതാണെങ്കിൽ എല്ലാം ആപേക്ഷികമാണ് നമുക്ക് ഉറപ്പുള്ള ഒരു സംഖ്യയിലേക്ക് എത്തിക്കാൻ കഴിയില്ല അതായത് 10 20 ഡിഗ്രി അപ്പോൾ ആ സൂക്ഷ്മ ജീവിയെ സ്റ്റെനോതേർമൽ സൂക്ഷ്മ ജീവി എന്നു വിളിക്കുന്നു വളർച്ചയുടെ താപനില പരിധി Tmax Tmin വിശാലമാണെങ്കിൽ വൈവിധ്യമാർന്ന താപനിലയിൽ വളർച്ച സംഭവിക്കുന്നു അപ്പോൾ ആ സൂക്ഷ്മ ജീവിയെ യൂറിതെർമൽ eurythermal organism സൂക്ഷ്മ ജീവി എന്നു വിളിക്കുന്നു താപനിലയുമായി വീണ്ടും വളർച്ചാ നിരക്കിലെ വ്യത്യാസം നമുക്ക് നോക്കാം T ഒപ്റ്റിമം വളർച്ചാ നിരക്ക് പരമാവധി യുള്ള താപനില ഏകദേശം മധ്യത്തിൽ 30 ºC എന്ന് പറയാം ഇത് ശരിക്ക്15 ന് ആരംഭിക്കുന്നു തുടർന്ന് 30 വരെ പോകുന്നു തുടർന്ന് വളർച്ച 40നു ശേഷം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല T ഒപ്റ്റിമം 30 0C ആണെങ്കിൽ ഈ ജീവിയെ ഒരു മീസോഫിൽ എന്ന് വിളിക്കുന്നു കുറഞ്ഞ താപനിലയാണെങ്കിൽ അതായത് താപനില 150C എങ്കിൽ അപ്പോൾ ഈ ജീവിയെ സൈക്രോഫൈൽ എന്നു വിളിക്കുന്നു ഫൈൽ ഇഷ്ടമുള്ള എന്നാണ് അതിനാൽ സൈക്രോ കുറഞ്ഞ താപനില ഇഷ്ടമുള്ള മീസോ മധ്യ താപനില ഇഷ്ടം പിന്നെ വേറെ ഒന്നുകൂടിയുണ്ട് കൂടുതലാണെങ്കിൽ അതായത് 60 ആണെങ്കിൽ അതിനെ തെർമോഫൈൽ എന്നു വിളിക്കുന്നു ഒരു വ്യവസായത്തിൽ നാം ഉപയോഗിക്കുന്ന മിക്ക ജീവികളും മെസോഫിൽസ് ആണ് കാരണം താപനില പരിപാലനം വളരെ എളുപ്പമാണ് കുറഞ്ഞ താപനില നിലനിർത്താനും ഉയർന്ന താപനില നിലനിർത്താനും ധാരാളം പ്രയത്നം ഉണ്ട് ഊർജ്ജവും പ്രയത്നവും മറ്റും അതിനാൽ ചില ഉൽപ്പന്നങ്ങൾ ഒഴികെ സൈക്രോഫൈലുകളോ തെർമോഫൈലുകളോ സാധാരണ ഉപയോഗിക്കാറില്ല സാധാരണയായി മീസോഫൈലുകൾ ആണ് വ്യവസായത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് നാം പരിചിതമാകേണ്ട മറ്റു ചില വിശേഷണങ്ങൾ കൂടിയുണ്ട് അത് ഒബ്ലിഗേറ്റ് അഥവാ ഫാകൽറ്റടിവ് ആണ് ഒരു വശത്ത് വഴങ്ങാവുന്നവയും മറുവശത്ത് കർശനവും എന്നാണർത്ഥം ഇത് ഏതു സാഹചര്യത്തിലും ഉപയോഗിക്കാം താപനിലയുടെ പശ്ചാത്തലത്തിൽ നാം അത് പരിചയപ്പെടുത്താം ഉദാഹരണത്തിന് ഒബ്ലിഗേറ്റ് തെർമോഫൈലുകൾ കർശനമായ തെർമോഫൈലുകൾ ഉയർന്ന താപനിലയിൽ മാത്രമേ വളരുകയുള്ളൂ അവ മുറിയിലെ താപനിലയിൽ വളരില്ല അല്ലെങ്കിൽ അവ അനുയോജ്യമായതോ ഉയർന്നതോ ആയ താപനിലകളിൽ വളരില്ല അതാണ് ഇതിന്റെ അർത്ഥം അതേസമയം ഫാക്കൽടേറ്റീവ് തെർമോഫൈലുകൾ മുറിയിലെ താപനിലയിൽ വളരാം വളരെ കുറഞ്ഞ വളർച്ചാ നിരക്കിൽ അവ ഒപ്റ്റിമം താപനിലയിലെ താഴെയും വളരും എന്നാൽ കുറഞ്ഞ വളർച്ച നിരക്കിൽ മാത്രം അത് ഈ വിശേഷണങ്ങൾ പല വ്യത്യസ്ത സാഹചര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഓക്സിജൻ ആവശ്യമുള്ള ഒരു എയറോബും അത് ഒരു ഒബ്ലിഗേറ്റ് എയറോബാണെങ്കിൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മാത്രമേ വളരുകയുള്ളൂ ഓക്സിജന്റെ അഭാവത്തിൽ അത് വളരാൻ കഴിയില്ല അതേസമയം ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഒരു ഫാക്കൽറ്റടിവ് എയറോബിനു നന്നായി വളരാൻ കഴിയും കൂടാതെ ഓക്സിജന്റെ അഭാവത്തിലും അതിന് വളരാൻ കഴിയും അതിനാൽ ഇത് പല വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് മുന്നോട്ടു പോകുമ്പോൾ വളർച്ചാ നിരക്കിലെ താപനിലയുടെ പ്രഭാവം അളക്കുന്നതിന് ഇനിപ്പറയുന്ന സമവാക്യം ഉപയോഗിക്കാവുന്നതാണ് കോശവളർച്ചയുടെ വോളിയംമെട്രിക് റേറ്റ് Rx X ആണ് സ്ഥിരാങ്കങ്ങൾ 𝜇′ 𝑘𝑑′ എന്നിവ അർഹെനിയസ് സമവാക്യം നൽകുന്നു അവിടെ Eg വളർച്ചക്ക് ആക്ടിവേഷൻ ഊർജ്ജം ഏകദേശം 10 20 kcal mol 1 60 80 kcal mol 1 എന്നതു Ed നശീകരണത്തിനുള്ള ആക്ടിവേഷൻ ഊർജം അതുകൊണ്ട് താപനിലയുടെ ആശ്രിതത്വം ഇവിടെ ഉണ്ട് അതിനാൽ 𝜇′ എന്നത് താപനിലയുടെ ഫംഗ്ഷൻ ഇനി 𝐸g അറിയുമെങ്കിൽ അതിന്റെ നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് മറ്റൊരു താപനിലയിൽ എന്തായിരിക്കുമെന്ന് പറയാൻ കഴിയും ഇത് ഒരു ഗണിത മാതൃകയാണ് ഇത് ജീവികളുടെ വളർച്ചാ നിരക്കിൽ താപനിലയുടെ പ്രഭാവം എന്താണെന്ന് നല്കുന്നു ഉയർന്ന താപനില ബയോറിയാക്ടറുകൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കാമെന്ന് നാം ഇതിനകം കണ്ടിട്ടുണ്ട് നമ്മൾ അത് ഒരു വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ അതിനെ കുറിച്ചൊരു ഒരു പ്രശ്നവും ചെയ്തു താപനില കോശങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എല്ലാ കോശങ്ങളെയും കൊല്ലുന്ന സാഹചര്യത്തിൽ താഴ്ന്ന താപനില ഇന്നാനിമേറ്റ് അവസ്ഥയിൽ കോശങ്ങൾ സംരക്ഷിക്കാൻ ഉപയോഗിക്കാം ആവശ്യമുള്ളപ്പോൾ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും ഇത്തരം പ്രക്രിയയെ ക്രയോപ്രിസർവേഷൻ എന്നു വിളിക്കുന്നു നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ കോശങ്ങൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ സാധാരണമായ ഒരു ചോദ്യമാണ് അത് വളരെ അത്യാവശ്യവുമാണ് ഉത്പാദനത്തിനും ഗവേഷണത്തിനും ഉപയോഗിക്കുന്ന നിരവധി സെൽ ലൈൻ സ്ട്രെയിനുകളും ഉണ്ട് ചിലത് ഒരു പ്രത്യേക ഉദ്ദേശ്യത്തിനായി പരിഷ്കരിച്ചിട്ടുണ്ട് ചില കോശങ്ങൾ അഭിലഷണീയ ഗുണങ്ങൾ നൽകാൻ പരിഷ്കരിച്ചശേഷം കുറഞ്ഞ താപനിലയിൽ ലിക്വിഡ് നൈട്രജൻ താപനിലയിൽ സംഭരിക്കപ്പെടുന്നു കൂടാതെ കുറഞ്ഞ താപനിലയിൽ ആ കോശങ്ങൾ ഇന്നാനിമേറ്റ് അവസ്ഥയിൽ നിലനിർത്താൻ ഉപയോഗിക്കുന്നു ആവശ്യമുള്ളപ്പോൾ അവ ഉത്പാദനത്തിനും ഗവേഷണത്തിനും പുനരുജ്ജീവിപ്പിക്കാനാകും കോശരേഖകളുടെ ലഭ്യതയെ ആശ്രയിച്ചാണ് ഗവേഷണം വാസ്തവത്തിൽ ചില ലാബുകളിൽ ഗവേഷണം നിലനിറുത്താൻ പോലും അത് വളരെ പ്രധാനമാണ് എപ്പോഴൊക്കെ വൈദ്യുതി പോകുമ്പോഴും മറ്റും ഏറ്റവും വലിയ ആശങ്ക 80 ºC ഫ്രീസർ ബാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ യുപിഎസ് പിന്തുണയുള്ള വൈദ്യുതി ലൈനുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ 80 ºC ഫ്രീസിന് തുടർച്ചയായി വൈദ്യുതി ഉണ്ടാകണം അത് വളരെ പ്രധാനമാണ് അത് എപ്പോഴും ചെയ്യുന്നു എളുപ്പത്തിൽ ബന്ധപ്പെടുത്താവുന്ന ഒരു ഉദാഹരണമാണ് ബീജ ബാങ്കുകൾ അവിടെ ബീജങ്ങൾ ആവശ്യമുള്ളപ്പോൾ കുറഞ്ഞ താപനില ഉപയോഗിച്ച് ഒരു അചേതന അവസ്ഥയിൽ പരിപാലിക്കപ്പെടുന്നു മാത്രമല്ല മരണശേഷവും മറ്റും മനുഷ്യരെ ഒരു തരം അനിമേറ്റഡ് അവസ്ഥയിൽ നിലനിർത്തുന്നു പല വിധത്തിലുള്ള മാർഗങ്ങൾ ഉണ്ട് ഒരു പക്ഷേ ആരെങ്കിലും ഒരു രോഗം ബാധിച്ച് മരിക്കാൻ പോകുന്നു അയാൾക്ക് വേറെ പ്രതിവിധി ഇല്ല വ്യക്തിയെ വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചാൽ ഭാവിയിൽ രോഗത്തിന് പ്രതിവിധി ഉണ്ടായേക്കാം ഈ നടപടിക്രമം വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുന്നു ഇത് വളരെ ചെലവേറിയ ഒരു തരം ഉദ്യമം ആണ് ഒരു രോഗ ശമനം ലഭ്യമാകുമ്പോൾ ഒരുപക്ഷേ ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും ഇവയെല്ലാം യഥാർത്ഥങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ചില വീഡിയോകൾ കാണിക്കാൻ പോകുന്നു അവ ഏതൊക്കെ വീഡിയോകളാണ് എന്ന് ഞാൻ പറയാം നമ്പർ 17 ഇവിടെ ഫയലിൽ ഗവേഷണ ഉത്പാദനത്തിനും മറ്റും ഉപയോഗിക്കുന്ന ക്രയോപ്രെസെർവേഡ് സസ്തനി കോശങ്ങൾ എങ്ങനെ പരിപാലിക്കാം എന്നതിൻറെ ഒരു നല്ല വീഡിയോയാണിത് നമ്പർ 18 മുഴുവൻ ശരീര സംരക്ഷണം ഈ ലിങ്കുകളിൽ ക്ലിക്ക്ക്ലിക്ക് ചെയ്ത് ഈ ചെറിയ വീഡിയോകൾ കാണാം ഈ പ്രക്രിയകളെ കുറിച്ച് കൂടുതൽ നന്നായി മനസ്സിലാക്കാം അവ വളരെ രസകരമാണ് ആ വീഡിയോകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ലിക്വിഡ് നൈട്രജൻ താപനില വളരെ കുറഞ്ഞ താപനില ദീർഘകാല സംഭരണത്തിന് ആവശ്യമാണ് കൂടാതെ തണുപ്പിക്കുന്ന നിരക്കുകൾ കോശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മുറിയിലെ താപനില ദ്രാവക നൈട്രജൻ താപനില വരെ താഴും ആ താപനിലയിൽ എത്തുന്ന നിരക്ക് വളരെ ശ്രദ്ധാപൂർവ്വം വേണം ചെയ്യാൻ അവ നോക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ചില ശ്രദ്ധാപൂർവ്വം ചെയ്യാം സൈറ്റോപ്ലാസത്തിനകത്ത് ഐസ് രൂപീകരണം ഒഴിവാക്കണം ഖരത്തിന്റെ ഗാഢത ദ്രാവകഗാഢതയേക്കാൾ കുറവാണെന്ന് നമുക്കെല്ലാം അറിയാം വാസ്തവത്തിൽ H2O യുടെ പരമാവധി താപനില 4ºC ആണ് അതിനാൽ ദ്രാവകത്തിന്റെ വ്യാപ്തത്തേക്കാൾ വലുതാണ് ഐസിന്റെ വ്യാപ്തം കോശത്തിനുള്ളിലെ ജലം തണുത്തുറഞ്ഞ് കിടക്കുന്നതിനാൽ കോശത്തിനുള്ളിൽ ഐസ് രൂപപ്പെടുന്നു അത് കോശത്തെ തന്നെ പൊട്ടിക്കാം അത് അപകടമാണ് അതിനാൽ തണുപ്പിക്കുന്ന നിരക്ക് അറിയുകയും ഐസ് പൊട്ടലും കേടാകുന്നതും തടയാൻ ഉപയോഗിക്കുന്ന മറ്റ് ചില രീതികൾ നടപടിക്രമങ്ങൾ ക്രമീകരിക്കുകയും വേണം ഐസ് ഗാഢത കുറഞ്ഞതിന്റെ ഒരു രസകരമായ ഫലം നോക്കാം തണുത്ത രാജ്യങ്ങളിൽ മഞ്ഞുകാലത്ത് തടാകങ്ങളുടെ മുകളിലും മറ്റും ഐസ് രൂപം കൊള്ളുന്നു മഞ്ഞുകാലത്ത് ആളുകൾ ക്ക് ഐസ് സ്കേറ്റ് ചെയ്യും ശരിക്കും ഖരം മുകളിൽ ആണ് താഴെയുള്ള ജലം യഥാർത്ഥത്തിൽ ദ്രാവകമാണ് ഐസ് രൂപപ്പെടുന്നതിനാൽ കുറഞ്ഞ താപനിലയിൽ പോലും ജീവൻ നിലനിൽക്കാൻ അനുവദിക്കുന്നു ഇത് കൂടുതൽ തണുക്കുന്നത് തടയുന്നു അതായത് ജലത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഖരം ആണിവിടെ പ്രകൃതിജീവശാസ്ത്രത്തിൽ ഇങ്ങനെ സംഭവിക്കുന്ന രസകരമായ ചില കാര്യങ്ങൾ ഉണ്ട് ഐസ് നാശം കുറയ്ക്കുന്നതിന് ഡി ഒ സീറം ആൽബുമിനോ ഡെക്സ്ട്രാനോ പോലുള്ള ചില രാസവസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് താപനില വളരെ കൂടുതലാകുമ്പോൾ അത് ബയോറിയാക്റ്ററിൽ നിയന്ത്രിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ആരെങ്കിലും ബയോറിയാക്റ്ററിൽ സസ്തനികളുടെ കോശങ്ങൾ വളർത്തുകയാണെങ്കിൽ താപം 37 ºC ആയിരിയ്ക്കും യീസ്റ്റ് കോശമാണെങ്കിൽ അത് 30 ºC ആയിരിക്കും ചില ബാക്ടീരിയകൾ 37 ºC യിൽ വളരുന്നു ചില ബാക്ടീരിയകൾ 30 ºC അല്ലെങ്കിൽ 28 ºC ലും വളരുന്നു ചില ആൽഗകൾ മൈക്രോ ആൽഗകൾ എന്നിവ 25 ºC ലും അതുകൊണ്ട് താപനില യിൽ വ്യത്യാസം വരാം ഏതായാലും നിങ്ങൾ താപനില മാറ്റങ്ങളും മറ്റും ചെയ്യുന്നുവെങ്കിൽ ജീവിയെ തിരഞ്ഞെടുത്താൽ അന്തരീക്ഷ ഊഷ്മാവ് അതിന്റെ എറ്റവും നല്ല തലത്തിൽ നിയന്ത്രിക്കേണ്ടതുണ്ട് ബയോറിയാക്റ്ററിലെ അതിന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ തലത്തിലോ ബയോറിയാക്റ്ററിൽ ആവശ്യമായ നിലയിലോ താപനില നിങ്ങൾക്കു നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം അത് അളക്കേണ്ടതുണ്ട് സാധാരണയായി ഒരു റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഉപകരണം RTD ഇലക്ട്രോണിക്കലായി കാണിക്കുന്നു ചെറിയ തോതിൽ ഉള്ളതിൽ തെർമോമീറ്ററും ഉപയോഗിക്കാം സാധാരണ രീതിയിൽ അളക്കാൻ മാത്രം താപനില നിയന്ത്രണം തുടർച്ചയായി പ്രവർത്തിക്കേണ്ടതുണ്ട് സാധാരണയായി ഒരു കൺട്രോൾ ലൂപ്പിലൂടെ യും മറ്റും ഇലക്ട്രോണിക്കലായി ആണ് അത് ചെയ്യുന്നത് അതിനു വേണ്ടി മാനുവൽ ഇടപെടൽ ബുദ്ധിമുട്ടായിരിക്കും അത്തരം സാഹചര്യങ്ങളിൽ ഒരു റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഉപകരണം RTD ഉപകരണം ആണ് ഉപയോഗിക്കേണ്ടത് കോശ പ്രക്രിയകളിലൂടെ താപം ഉണ്ടാകും കോശത്തിൽ പല പ്രക്രിയകളിലും സംഭവിക്കുന്ന ചയാപചയപ്രക്രിയകളാണു താപം ഉണ്ടാക്കുന്നത് അതിനാൽ ബയോറിയാക്ടർ താപം ഉത്പാദിപ്പിക്കുന്നതിനാൽ താപനില നിലനിർത്താൻ ഇത് ഫലപ്രദമായി നീക്കം ചെയ്യേണ്ടതുണ്ട് സാധാരണയായി ബയോറിയാക്ടറിനു ചുറ്റുമുള്ള ഒരു ജാക്കറ്റിൽ വെള്ളം വിതരണം ചെയ്യുക വഴി ഇത് നീക്കം ചെയ്യാം സിലിണ്ടർ പാത്രം എന്ന് പറയുന്ന ഒരു ബയോറിയാക്ടർ പാത്രം ഉണ്ട് നിങ്ങൾക്ക് ഇത് മറ്റൊരു പാത്രവുമായി യോജിപ്പിക്കാം ബയോറിയാക്ടർ താപനില നിലനിർത്താൻ അനുയോജ്യമായ താപനിലയിൽ ജലം വിതരണം ചെയ്യണം ഒരു പദാർഥം കൊണ്ട് ചൂടാക്കുന്നത് അല്പം ബുദ്ധിമുട്ടാണ് കാരണം പദാർഥം വളരെ ഉയർന്ന താപനിലയിൽ എത്തുകയും ആ താപന മൂലകവുമായുള്ള സമ്പർക്കത്തിൽ വരുന്ന കോശങ്ങൾ നശിച്ചു പോകുകയും ചെയ്യും അത് സാധാരണ നിലയിൽ ചെയ്യാൻ കഴിയില്ല സാധാരണയായി ജാക്കറ്റിന്റെ താപനില നിയന്ത്രിക്കുന്നതിലൂടെയാണ് ഇത് ചെയ്യുന്നത് അന്തരീക്ഷത്തെക്കാൾ ഉയർന്ന താപനിലയാണ് ക്രമപ്പെടുത്തിയ താപനില എങ്കിൽ അതായത് 37 0C എന്നാൽ മെറ്റബോളിക് ചൂടിന് താപനില നിലനിർത്താൻ മതിയായ താപം നൽകാൻ കഴിയില്ല ബയോറിയാക്ടർ ഉൾവശം ചൂടാക്കേണ്ടതുണ്ട് ജാക്കറ്റിലെ ജലചംക്രമണം ഇത് വളരെ ഫലപ്രദമായി ചെയ്യുന്നു ചിത്ര രൂപത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ബയോറിയാക്ടർ ഒരു നിയന്ത്രണ ബിന്ദുവിൽ നിന്ന് ആർടിഡി ഉപകരണം വഴി താപനില അളക്കപ്പെടുന്നു RTD ഇത് അളക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് നിയന്ത്രിത ചരമാണ് താപനില നിയന്ത്രിത ചരമാണ് ഒരു ട്രാൻസ്മിറ്റർ വഴി അളക്കുന്നത് ക്രമപ്പെടുത്തി വച്ച താപനില നിയന്ത്രണ ട്രാൻസ്മിറ്റർ ആണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ 370C ആണ് അത് പ്രതിനിധീകരിക്കുന്നത് അതിനാൽ ബയോറിയാക്റ്ററിൽ ക്രമപ്പെടുത്തിയ താപനില നിലനിർത്താൻ കൺട്രോളർ നടപടി എടുക്കുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ ജാക്കറ്റ് ജല താപനിലയിൽ മാറ്റം വരും താപനില നിയന്ത്രിക്കുന്നതിന് ബയോറിയാക്ടറിന്റെ ജാക്കറ്റിൽ വിതരണം ചെയ്യപ്പെടുന്ന ജലത്തിലാണല്ലോ ഇത് ഒരു നേർധാരാ താപനില നിയന്ത്രണമാണ് ഇത് ഒരു അടിസ്ഥാന നിയന്ത്രണമാണ് ആരെങ്കിലും സിസ്റ്റം നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിയന്ത്രണ രീതിയിൽ ഉപയോഗിക്കുന്ന പദങ്ങളായ നിയന്ത്രണ ചരവും കൃത്രിമചരവും പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിശിഷ്ടമായ രീതിയാണിത് അത് എനിക്ക് തോന്നുന്നത് താപനിലയെ കുറിച്ചുള്ള നല്ല വിവരമാണ് രണ്ടാമത്തെ വേരിയബിൾ നമുക്ക് നോക്കാംമീഡിയത്തിന്റെപിഎച്ച് എന്നത് ഹൈഡ്രജൻ അയോൺ ഗാഢതയുടെ നെഗറ്റീവ് ലോഗരിതം ആണ് മാധ്യമത്തിലെ ഹൈഡ്രജൻ അയോൺ ഗാഢത അളക്കാൻ കഴിയും അത് pH നൽകുന്നു പിഎച്ച് വളർച്ചയെ ഗണ്യമായി ബാധിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പിഎച്ചിന് ഒരു പരമാവധി വില ഉണ്ട് ബാക്ടീരിയകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഭാവം ഇല്ലാതെ വളർച്ച സംഭവിക്കാവുന്ന പിഎച്ച് വളരെ വിശാലമാണ് 3 നും 8 നും ഇടയിൽ ഇത് നന്നായി വളരും ഫംഗസുകൾക്ക് 3 മുതൽ 7 വരെ എന്ന് പറയാം എന്നാൽ സസ്തനികളുടെ കോശങ്ങൾ വളരെ കർശനമാണ് സസ്തനികളുടെ കോശങ്ങൾ ക്ക് പിഎച്ച് 6 5 നും 7 5 നും ഇടയിൽ ആണെങ്കിൽ മാത്രമേ അവ വളരുകയുള്ളൂ വാസ്തവത്തിൽ അത് 6 5 ൽ താഴെ പോയാൽ വളരുന്നില്ല അതിനാൽ മീഡിയത്തിൽ ഫീനോൾ റെഡ്പോലത്തെ ചായങ്ങൾ ചേർക്കുന്നു അതിന്റെ നിറം പിഎച്ച് സൂചിപ്പിക്കുന്നു മാധ്യമം പിങ്ക് നിറമായെങ്കിൽ താപനില വളരെ ഉയർന്നതായി കണക്കാകാം കോശങ്ങൾ നശിച്ചു പോയേക്കാം ചിലപ്പോൾ ആസിഡ് രൂപപ്പെടുന്നത് മൂലം ഓറഞ്ച് നിറമാകും 6 8 ഉം മറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ലാബിലും ആശങ്കപ്പെടേണ്ടതാണ് pH ന്റെ നിറം കിട്ടാൻ ഡി എം പോലുള്ള പല സസ്തനികളുടെ കോശങ്ങളിലും ഫീനോൾ റെഡ് സാധാരണയായി ചേർക്കപ്പെടുന്നു സസ്യകോശങ്ങൾ 5 മുതൽ 6 വരെ കർശന പി എച്ചിലാണ് വ്യത്യസ്ത തരം കോശങ്ങൾ പിഎച്ച് മാറ്റത്തിനു വ്യത്യസ്ത പരിധിവരെ സെൻസിറ്റീവ് ആണ് ബാക്ടീരിയ ഫംഗസ് എന്നിവക്ക് ന്യായമായും വലിയ പിഎച്ച് താങ്ങാൻ കഴിയും നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പി എച്ച് മാറ്റങ്ങൾക്ക് സസ്തനികളിലെ കോശങ്ങൾ വളരെ സെൻസിറ്റീവ് ആണ് അവ വളരില്ല കോശത്തിലെ ചയാപചയപ്രക്രിയ പ്രതിപ്രവർത്തനങ്ങളിൽ ആസിഡുകൾ രൂപപ്പെടുന്നു സസ്തനികോശത്തിന്റെ aമെറ്റബോളിസത്തിലെ വളരെ സാധാരണമായ ഒരു ഉപോൽപ്പന്നമാണ് ലാക്ടിക് ആസിഡ് അത് കോശങ്ങളിൽ നിന്ന് സ്രവിക്കുന്നതാണ് പി അങ്ങനെ കുറയും മീഡിയത്തിന്റെ അമ്ലത കൂടുകയും ചെയ്യും മാത്രമല്ല വ്യത്യസ്ത പ്രതിഭാസങ്ങൾ കാരണം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആൽക്കലിനൈസേഷനും സംഭവിക്കാം എച്ച് നിയന്ത്രിക്കാൻ കാർബോണിക് ആസിഡ് ഉപയോഗിക്കുന്നുമൈക്രോ ആൽഗകളുടെ കൾടിവേഷനിലും പ്രകാശ സംശ്ലേഷണ മൈക്രോ ആൽഗകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് വായുവിൽ അത് കാർബോണിക് ആസിഡ് ഉൽപാദിപ്പിക്കുന്നുഈ കർബോണിക് ആസിഡ് ബഫർ സിസ്റ്റം ബയോറിയാക്ടറുകളിൽ മൈക്രോ ആൽഗകൾ വളരുന്ന സമയത്ത് ഉപയോഗിക്കുന്നു എച്ചിന്റെ അളവും നിയന്ത്രണവും ഒരു പ്രോബ് വഴി അളക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ രീതി ആണ് ഈ തത്ത്വം വളരെ നല്ലതാണ് ഞാൻ അതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ പ്രഭാഷണത്തിൽ കുറച്ച് സമയം അതിനെടുത്തേക്കാം ഇതൊരു നല്ല വീഡിയോ ആണ് ഒരു പി എച്ച് പ്രോബ് വഴി പി എച്ച് അളക്കുന്നതിനുള്ള തത്വം നിങ്ങൾക്ക് മനസ്സിലാകും എച്ച് മേഷർമെൻറ് നമ്പർ 19 നിങ്ങൾക്ക് പോയി നോക്കാം തീർച്ചയായും പ്രോബ് മീഡിയയുമായി സമ്പർക്കത്തിൽ ആയിരിക്കും അതിനാൽ അത് അണുവിമുക്തമാകേണ്ടതുണ്ട് അല്ലാത്തപക്ഷം അത് മീഡിയയെ ബാധിക്കും അതിനാൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് പ്രോബ് അണുവിമുക്തമാക്കുന്നു എപ്പോൾ വേണമെങ്കിലും അണുവിമുക്തമാക്കാം ബയോറിയാക്ടറുകളുമായി ബന്ധപ്പെട്ട പ്രോബുകൾ ഓട്ടോക്ലാവബിൾ ആണ് പക്ഷേ എല്ലാം അങ്ങനെയല്ല ഉദാഹരണത്തിന് ലായനിയുടെ പിഎച്ച് അളക്കാൻ ലാബിൽ ഉപയോഗിക്കുന്ന പി എച്ച് പ്രോബ് സാധാരണയായി ഓട്ടോക്ലാവബിൾ അല്ല പിഎച്ച് നിയന്ത്രണം അതായത് പിഎച്ച് താഴേക്ക് പോകുകയാണെങ്കിൽ പി എച്ച് മുകളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അത് മുകളിലേക്ക് പോകുമ്പോൾ താഴേക്കും കൊണ്ടുവരേണ്ടതുണ്ട് ഒരു ആസിഡോ ബേസോ ചേർത്ത് ബ്രോത്ത് പി എച്ച് നിലനിർത്തുന്നു അങ്ങനെ അത് നിയന്ത്രിക്കപ്പെടുന്നു ഇനി 2 പാത്രങ്ങൾ ഒന്നിൽ ആസിഡ് അടങ്ങിയിരിക്കുന്നു മറ്റേതിൽ ഒരു ബേസ് അടങ്ങിയിരിക്കുന്നു എന്താണ് ചേർക്കേണ്ടത് ഒരു തീരുമാനം എടുക്കണം ഒരു പ്രത്യേക നിശ്ചിത ബിന്ദുവിൽ പി എച്ച് നിലനിർത്തുന്നതിന് ആസിഡ് അല്ലെങ്കിൽ ഒരു ബേസ് ചേർക്കുന്നു ബഫറുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചില വസ്തുക്കൾ ഉണ്ടല്ലോ എന്നു നിങ്ങൾ ചോദിക്കാം ഫോസ്ഫേറ്റ് ബഫറുകൾ അസെറ്റേറ്റ് ബഫറുകൾ സിട്രിക് ബഫറുകൾ തുടങ്ങിയവ എച്ച് മൂല്യത്തിൽ വലിയ മാറ്റങ്ങൾ താങ്ങുന്നതിനായി രാസസംവിധാനങ്ങളിലൂടെ രൂപകൽപ്പന ചെയ്യപ്പെട്ടവയാണവ അവ നിശ്ചിത ബിന്ദുവിൽ പി എച്ച് മൂല്യം നിലനിർത്തുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ അവയിൽ ആസിഡ് കൂട്ടിച്ചേർക്കൽ അല്ലെങ്കിൽ പിഎച്ച് ഒരേ പോലെ നിലനിർത്താൻ ബേസ് ചേർക്കാൻപ്രഭാവം ചെറുക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ത്കൊണ്ട് കോശങ്ങൾക്ക് ബഫറുകളിൽ വളരാൻ കഴിയുന്നില്ല അങ്ങിനെയായാൽ പിഎച്ച് നിയന്ത്രണം ഒഴിവാക്കാമല്ലോ നിങ്ങൾ അവ ബഫറിൽ വളർത്തുകയാണെങ്കിൽ പി എച്ച് നിയന്ത്രണം ആവശ്യമില്ല ഈ ചോദ്യങ്ങൾ ഉയർന്നു വരാം വാസ്തവത്തിൽ നമ്മൾ ബഫറിൽ കോശങ്ങൾ വളർത്താൻ ശ്രമിച്ചു നോക്കി ഞങ്ങൾക്ക് അതിനു ഉപോൽപകമായുള്ള തെളിവിനുള്ള പ0നങ്ങളൊന്നും കണ്ടെത്താനായില്ലായിരുന്നു അത്ഭുതമെന്തെന്നാൽ കോശങ്ങൾ ബഫറുകളിൽ വളരുന്നില്ല എന്നു കണ്ടെത്തി കാരണം മീഡിയത്തിന്റെ അയോണിക ബലം പ്രധാന പാരിസ്ഥിതിക വേരിയബിൾ ആണ് അല്ലെങ്കിൽ കൾടിവേഷന് പാരിസ്ഥിതിക വേരിയബിൾ ആയ അയോണിക ബലo ആവശ്യമാണ് ഒരുപക്ഷേ അവ വളരാത്തതിന്റെ കാരണം ഇതായിരിക്കാം അതിനാൽ കോശങ്ങൾ വളർത്താൻ നിങ്ങൾക്ക് സാധാരണ ബഫറുകൾ ഉപയോഗിക്കാൻ കഴിയില്ല പിഎച്ച് നിയന്ത്രണത്തിനായുള്ള ചിത്രം ഇങ്ങനെയാണ് പിഎച്ച് ഒരു നിയന്ത്രിത ചരമാണ് പ്രോബ് വഴിയാണ് അളക്കുന്നത് വൈദ്യുതരാസപരമായി അളക്കുന്ന പി എച്ചിന്റെ മൂല്യം ട്രാൻസ്മിറ്ററിലേക്കും ട്രാൻസ്മിറ്റർ കൺട്രോളറിലേക്കും അയയ്ക്കുന്നു കൾടിവേഷന് വേണ്ട ആദ്യമേ ഉണ്ടാകി വച്ച പി എച്ച് വിലയിൽ മാറ്റം ഉണ്ടെങ്കിൽ അവിടെ വച്ച് തിരുത്തുന്നു ഇവിടെ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വേരിയബിൾ ആയ ആസിഡിനെയോ അടിസ്ഥാന ഒഴുക്കിൻറെ തോതിനേയോ മാറ്റി ചെയ്യുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നു ഈ പ്രഭാഷണത്തിൽ നമുക്ക് വളരെ ചുരുക്കത്തിൽ എയറേഷനും അജിറ്റേഷനും കാണാം അടുത്ത പ്രഭാഷണത്തിൽ വിശദാംശങ്ങൾ നോക്കാം ബയോറിയാക്ടറിന്റെ ഉള്ളിലെ ചേരുവ സൂക്ഷിക്കുന്നതിനും ആവശ്യമായ ഓക്സിജൻ ഇംപെല്ലറുകൾ വഴി നൽകുന്നതിനും അജിറ്റേഷൻ ആവശ്യമാണ് മിക്സിംഗ് ആൻഡ് ഇംപെല്ലേഴ്സ് 2 വീഡിയോഉണ്ട് ഇത് അജിറ്റേഷനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകും ഞാൻ അവ നിങ്ങൾക്ക് കാണിക്കാം സ്വന്തമായി അവയെ കാണുക അതിന്റെ കൂടെ മിക്സിംഗും ലാബ് സ്കെയിൽ ബയോറിയാക്റ്ററിലെ നിയന്ത്രണങ്ങളിൽ ഇത് ഉപയോഗപ്രദമായ വീഡിയോ ആണ് ഇത് പഴയ കാര്യങ്ങളുമായി ചേർന്ന് കാണുക ലാബ് സ്കെയില് ബയോറിയാക്ടറുകളിൽ എല്ലാ നിയന്ത്രണങ്ങളും ഇത് കാണിച്ചു തരുന്നു ഇത് വളരെ ഉയർന്ന നിലവാരമുള്ള വീഡിയോ ഒന്നുമല്ല എന്നാലും അവ എന്താണ് ചെയ്യുന്നത് എന്ന ഒരു ആശയം കിട്ടും നമ്പർ 21 മിക്സിംഗ് ആണ് നമ്പർ 22 വിവിധ തരത്തിലുള്ള ഇംപെല്ലേഴ്സ് ആണ് ആശയം മനസ്സിലാക്കാൻ ഈ വീഡിയോകൾ കാണുന്നത് നല്ലതാണ്പിന്നെ മിക്സിംഗ് പ്രതിഭാസത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഇംപെല്ലറുകളെ കുറിച്ചുള്ള വിശദാംശങ്ങളും ഇളക്കിയ ടാങ്ക് ബയോറിയാക്ടറുകളിൽ ഒരു നിശ്ചിത മൂല്യത്തിലാണ് ഇംപെല്ലർ ആർപിഎം നിയന്ത്രിക്കുന്നത് അളന്ന് തിട്ടപ്പെടുത്തിയ വേരീയബൾ ആയ ആർപിഎം അളക്കുന്നത് നിയന്ത്രിക്കുന്നത് ടാക്കോമീറ്ററുകളും കറക്കുന്ന ഷാഫ്റ്റിലേക്കുള്ള വൈദ്യുതിയും ആണ് എയർലിഫ്റ്റ് ബയോ റിയാക്ടറുകളിൽ ബയോറിയാക്ടറിൽ അജിറ്റേഷൻ മാത്രമല്ല എയറേഷൻ കൂടി മിശ്രിതത്തിൽ നിലനിർത്താൻ ഉപയോഗിക്കുന്നു എന്നു നമ്മൾ മോഡ്യൂൾ 1 ൽ കണ്ടിട്ടുണ്ട്കൂടാതെ എയ്റോബിക് കോശങ്ങൾക്ക് ഓക്സിജൻ നൽകുന്നതിനും എയറേഷൻ ഉപയോഗിക്കുന്നു വാതക ഫ്ലോ മീറ്ററുകൾ ഉപയോഗിച്ചാണ് എയറേഷൻ അളക്കേണ്ടത് റോട്ടാമീറ്ററുകളും മാസ്സ് ഫ്ലോ കൺട്രോളറുകളും സാധാരണയായി ഉപയോഗിക്കുന്നു റോട്ടാമീറ്ററുകൾ നേരിട്ട് നിയന്ത്രിക്കേണ്ടതുണ്ട് അതേസമയം മാസ്ഫ്ലോ കൺട്രോളറുകൾ യാന്ത്രിക നിയന്ത്രണത്തിലൂടെ ഇലക്ട്രോണിക്കലായി നിയന്ത്രിക്കാവുന്നതാണ് റോട്ടാമീറ്ററിലും മാസ്ഫ്ലോ കൺട്രോളറിലും ഉള്ള ചില വീഡിയോകൾ കാണുക മാസ്ഫ്ലോ കണ്ട്രോളർ തത്ത്വം വളരെ രസകരമാണ് ഞാൻ ആ വീഡിയോകൾ നിങ്ങൾക്ക് കാണിക്കാം 23 എന്ന സംഖ്യയിൽ റോട്ടാമീറ്ററിനായുള്ള വീഡിയോയും മാസ്സ് ഫ്ലോ കൺട്രോളറിന്റ്റെ 24 ാം നമ്പർ വീഡിയോയും ഉണ്ട് നിങ്ങൾക്ക് അവ ഇഷ്ടപ്പെട്ടേക്കാം അജിറ്റേഷനും എറേഷനും രണ്ടും ഇമേജിനറി വരിയബ്ൾ ആണ്അവ ചില പ്രത്യേക മൂല്യങ്ങളിൽ അലിഞ്ഞു ചേർന്ന ഓക്സിജൻ അളവുകൾ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ DO നിയന്ത്രണം നോക്കുമ്പോൾ അജിറ്റേഷനും എയറേഷനും ലെവലുകളും ഇമേജിനറി വേരിയബ്ള് ആയി മാറുന്നു അവ സ്വയം നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുഇവ കോശങ്ങളെ നുറുക്കുന്നു അല്ലെങ്കിൽ കോശങ്ങൾക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ നാം പിന്നീട് നോക്കും അടുത്ത തവണ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ അടുത്ത പ്രഭാഷണം വരുമ്പോൾ DO നിയന്ത്രണത്തിന്റെ വിശദാംശങ്ങൾ നമ്മൾ അറിയും DO എന്താണ് ചെയ്യുന്നത് DO യുടെ നിയന്ത്രണം തുടർന്ന് കോശങ്ങൾക്കു മേലുള്ള സമ്മർദ്ദം ഇവയൊക്കെ